പേറ്റന്റബിലിറ്റി തിരയലിന് എങ്ങനെ ഓർഡർ ചെയ്യാം പേറ്റന്റബിലിറ്റി തിരയലിന് എങ്ങനെ ഓർഡർ ചെയ്യാം പേറ്റന്റബിലിറ്റി തിരയലിന് ഓർഡർ ചെയ്യുന്നതിനുമുമ്പ് ചില ഘടകങ്ങൾ നിങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് പേറ്റന്റബിലിറ്റി തിരയലിന് ഓർഡർ ചെയ്യുന്നതിനുമുമ്പ് ചില ഘടകങ്ങൾ നിങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തെ ഘടകം ഒരു തിരച്ചിൽ വിദഗ്ധനെ കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തെ ഘടകം ഒരു തിരച്ചിൽ വിദഗ്ധനെ കണ്ടെത്തുക എന്നതാണ് സാധാരണയായി നിങ്ങൾ ഇലക്ട്രിക്കൽ കെമിക്കൽ മെറ്റലർജിക്കൽ അല്ലെങ്കിൽ ബയോടെക്നോളജി തുടങ്ങിയ ഏതെങ്കിലുമൊരു പ്രത്യേക സാങ്കേതികവിദ്യയിൽ പ്രാവീണ്യമുള്ള ഒരു തിരച്ചിൽ വിദഗ്ധനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക സാധാരണയായി നിങ്ങൾ ഇലക്ട്രിക്കൽ കെമിക്കൽ മെറ്റലർജിക്കൽ അല്ലെങ്കിൽ ബയോടെക്നോളജി തുടങ്ങിയ ഏതെങ്കിലുമൊരു പ്രത്യേക സാങ്കേതികവിദ്യയിൽ പ്രാവീണ്യമുള്ള ഒരു തിരച്ചിൽ വിദഗ്ധനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക ചിലപ്പോൾ അവർ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെക്കാനിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടെത്തെലുകളിൽ പ്രാവീണ്യം നേടിയവരിയിരിക്കും ചിലപ്പോൾ അവർ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെക്കാനിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടെത്തെലുകളിൽ പ്രാവീണ്യം നേടിയവരിയിരിക്കും നിങ്ങൾ ഒരു തിരച്ചിൽ വിദഗ്ധനെ കണ്ടെത്തും നിങ്ങൾ ഒരു തിരച്ചിൽ വിദഗ്ധനെ കണ്ടെത്തും തിരച്ചിൽ വിദഗ്ധൻ ആ പഠന മേഖലയിൽ പരിജ്ഞാനമുള്ള ആളായിരിക്കും തിരച്ചിൽ വിദഗ്ധൻ ആ പഠന മേഖലയിൽ പരിജ്ഞാനമുള്ള ആളായിരിക്കും തിരച്ചിൽ നടത്തി പരിജ്ഞാനമുള്ള വ്യക്തിയാണെങ്കിൽ അയാളിൽ നിന്ന് മികച്ച തിരയൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തിരച്ചിൽ നടത്തി പരിജ്ഞാനമുള്ള വ്യക്തിയാണെങ്കിൽ അയാളിൽ നിന്ന് മികച്ച തിരയൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തിരച്ചിൽ ദൌത്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചെയ്യുന്ന പല തിരച്ചിൽ വിദഗ്ധർ ഉണ്ടാകും തിരച്ചിൽ ദൌത്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചെയ്യുന്ന പല തിരച്ചിൽ വിദഗ്ധർ ഉണ്ടാകും പേറ്റന്റ് ഓഫീസ് ഫയലുകൾ നോക്കുന്ന അതായത് പേറ്റന്റ് ഓഫീസിൽ നിന്നുള്ള മുൻ പേറ്റന്റ് കല തിരയുന്ന ഒരു തിരച്ചിൽ വിദഗ്ധൻ ഉണ്ടാകും പേറ്റന്റ് ഓഫീസ് ഫയലുകൾ നോക്കുന്ന അതായത് പേറ്റന്റ് ഓഫീസിൽ നിന്നുള്ള മുൻ പേറ്റന്റ് കല തിരയുന്ന ഒരു തിരച്ചിൽ വിദഗ്ധൻ ഉണ്ടാകും പേറ്റന്റ് ഇതര സാഹിത്യ തിരയലുകൾ നടത്താൻ കഴിവുള്ള മറ്റൊരു തിരച്ചിൽ വിദഗ്ദൻ ഉണ്ടാകും പേറ്റന്റ് ഇതര സാഹിത്യ തിരയലുകൾ നടത്താൻ കഴിവുള്ള മറ്റൊരു തിരച്ചിൽ വിദഗ്ദൻ ഉണ്ടാകും ഇതേ കണ്ടെത്തലിന് വിദേശത്ത് പേറ്റന്റ് ഉണ്ടോ എന്ന് തിരയുന്ന തിരച്ചിൽ വിദഗ്ധരും ഉണ്ടാകും ഇതേ കണ്ടെത്തലിന് വിദേശത്ത് പേറ്റന്റ് ഉണ്ടോ എന്ന് തിരയുന്ന തിരച്ചിൽ വിദഗ്ധരും ഉണ്ടാകും അതായത് ഒരു തിരച്ചിലിന്റെ ഫലം എന്നത് വിവിധ തിരച്ചിൽ വിദഗ്ധരുടെ കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് പുറത്തുവരുന്നതാണ് അതായത് ഒരു തിരച്ചിലിന്റെ ഫലം എന്നത് വിവിധ തിരച്ചിൽ വിദഗ്ധരുടെ കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് പുറത്തുവരുന്നതാണ് രണ്ടാമതായി നിങ്ങളുടെ തിരച്ചിൽ അഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ നിങ്ങൾ തീർച്ചപ്പെടുത്തും രണ്ടാമതായി നിങ്ങളുടെ തിരച്ചിൽ അഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ നിങ്ങൾ തീർച്ചപ്പെടുത്തും തിരച്ചിൽ അല്ലെങ്കിൽ തിരച്ചിലിന്റെ ഗുണനിലവാരം നിങ്ങൾ നൽകിയ വിവരത്തെ ആശ്രയിച്ചിരിക്കും തിരച്ചിൽ അല്ലെങ്കിൽ തിരച്ചിലിന്റെ ഗുണനിലവാരം നിങ്ങൾ നൽകിയ വിവരത്തെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് കണ്ടെത്തലിന്റെ ഡ്രോയിംഗുകൾ ഉണ്ടെങ്കിൽ തിരച്ചിൽ വിദഗ്ധന് ആ കണ്ടെത്തൽ വ്യക്തമായി മനസിലാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിനും വളരെ എളുപ്പമാകും നിങ്ങൾക്ക് കണ്ടെത്തലിന്റെ ഡ്രോയിംഗുകൾ ഉണ്ടെങ്കിൽ തിരച്ചിൽ വിദഗ്ധന് ആ കണ്ടെത്തൽ വ്യക്തമായി മനസിലാക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിനും വളരെ എളുപ്പമാകും അതിനാൽ തിരച്ചിൽ വിദഗ്ദൻ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾ തിരച്ചിലിനായി എത്രത്തോളം സമയവും വിഭവങ്ങളും ഉപയോഗിക്കും എന്നും നിങ്ങൾ സാധാരണയായി തിരച്ചിൽ വിദഗ്ധനുമായി ചർച്ച ചെയ്യും അതിനാൽ തിരച്ചിൽ വിദഗ്ദൻ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നും നിങ്ങൾ തിരച്ചിലിനായി എത്രത്തോളം സമയവും വിഭവങ്ങളും ഉപയോഗിക്കും എന്നും നിങ്ങൾ സാധാരണയായി തിരച്ചിൽ വിദഗ്ധനുമായി ചർച്ച ചെയ്യും തിരച്ചിൽ നടത്തുന്നതിന് ഒരു ബജറ്റ് ഉണ്ട് ആ ബജറ്റിനുള്ളിൽ നിന്നായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ വിവരിക്കുക തിരച്ചിൽ നടത്തുന്നതിന് ഒരു ബജറ്റ് ഉണ്ട് ആ ബജറ്റിനുള്ളിൽ നിന്നായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ വിവരിക്കുക തിരച്ചിൽ പേറ്റന്റുകളായ വസ്തുക്കളിൽ മാത്രം അതായത് പേറ്റന്റ് സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങണമോ അതോ പേറ്റന്റ് ഓഫീസിലെ ഫയലുകൾക്കപ്പുറം പേറ്റന്റ് ഇതര സാഹിത്യ തിരയൽ നടത്തണമോ എന്ന് നിങ്ങൾ തിരച്ചിൽ വിദഗ്ധനോട് പറയണം തിരച്ചിൽ പേറ്റന്റുകളായ വസ്തുക്കളിൽ മാത്രം അതായത് പേറ്റന്റ് സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങണമോ അതോ പേറ്റന്റ് ഓഫീസിലെ ഫയലുകൾക്കപ്പുറം പേറ്റന്റ് ഇതര സാഹിത്യ തിരയൽ നടത്തണമോ എന്ന് നിങ്ങൾ തിരച്ചിൽ വിദഗ്ധനോട് പറയണം തിരച്ചിലിനായി സൌജന്യവും പണമടച്ച് ഉപയോഗിക്കാവുന്നതുമായ വ്യത്യസ്ത ഡാറ്റാബേസുകൾ ഉണ്ട് തിരച്ചിലിനായി സൌജന്യവും പണമടച്ച് ഉപയോഗിക്കാവുന്നതുമായ വ്യത്യസ്ത ഡാറ്റാബേസുകൾ ഉണ്ട് മൂന്നാമത്തെ കാര്യം തിരയലിന്റെ വ്യാപ്തി വിവരിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം തിരയലിന്റെ വ്യാപ്തി വിവരിക്കുക എന്നതാണ് നിങ്ങൾ ഒരു ഇന്ത്യൻ പേറ്റന്റ് ഫയൽ ചെയ്യുകയാണെങ്കിൽ തിരച്ചിലും ഇന്ത്യൻ പേറ്റന്റുകളെ മാത്രം ഉൾകൊള്ളുന്നതായിരിക്കും നിങ്ങൾ ഒരു ഇന്ത്യൻ പേറ്റന്റ് ഫയൽ ചെയ്യുകയാണെങ്കിൽ തിരച്ചിലും ഇന്ത്യൻ പേറ്റന്റുകളെ മാത്രം ഉൾകൊള്ളുന്നതായിരിക്കും അത് കൂടാതെ മുൻ പേറ്റന്റ് കലയും അതിൽ ഉൾപ്പെടുത്തും അത് കൂടാതെ മുൻ പേറ്റന്റ് കലയും അതിൽ ഉൾപ്പെടുത്തും അപ്പോൾ നിങ്ങളുടെ തിരച്ചിൽ ഒരു പ്രത്യേക അധികാരപരിധിയിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു വിദേശ ഫയലിംഗ് ആണെങ്കിൽ ആ പ്രത്യേക അധികാരപരിധിയിൽ ഈ കണ്ടെത്തലിന്റെ പേറ്റന്റിംഗ് എന്താണെന്ന് നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ തിരച്ചിൽ ഒരു പ്രത്യേക അധികാരപരിധിയിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു വിദേശ ഫയലിംഗ് ആണെങ്കിൽ ആ പ്രത്യേക അധികാരപരിധിയിൽ ഈ കണ്ടെത്തലിന്റെ പേറ്റന്റിംഗ് എന്താണെന്ന് നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു അതോടൊപ്പം തിരച്ചിലിൽ പേറ്റന്റ് സാഹിത്യവും പേറ്റന്റ് ഇതര സാഹിത്യവും ഉണ്ടായിരിക്കേണമോ എന്നും നിങ്ങൾക്ക് വ്യവസ്ഥ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തിരച്ചിലിൽ പേറ്റന്റ് സാഹിത്യവും പേറ്റന്റ് ഇതര സാഹിത്യവും ഉണ്ടായിരിക്കേണമോ എന്നും നിങ്ങൾക്ക് വ്യവസ്ഥ ചെയ്യാവുന്നതാണ് അതായത് ഈ സന്ദർഭങ്ങളിലെല്ലാം തിരച്ചിലിനെ കുറിച്ച് നിങ്ങൾ വിവരിക്കുന്ന വ്യാപ്തി അനുസരിച്ചായിരിക്കും തിരച്ചിൽ റിപ്പോർട്ട് രൂപപ്പെടുത്തുക അതായത് ഈ സന്ദർഭങ്ങളിലെല്ലാം തിരച്ചിലിനെ കുറിച്ച് നിങ്ങൾ വിവരിക്കുന്ന വ്യാപ്തി അനുസരിച്ചായിരിക്കും തിരച്ചിൽ റിപ്പോർട്ട് രൂപപ്പെടുത്തുക നിങ്ങൾ പരിഗണിക്കേണ്ട നാലാമത്തെ കാര്യം ഒരു തിരച്ചിലിന്റെ വില എത്രയാകും എന്നതാണ് നിങ്ങൾ പരിഗണിക്കേണ്ട നാലാമത്തെ കാര്യം ഒരു തിരച്ചിലിന്റെ വില എത്രയാകും എന്നതാണ് സാധാരണയായി തിരച്ചിലിന് ഒരു വില നിശ്ചയിച്ചിരിക്കും സാധാരണയായി തിരച്ചിലിന് ഒരു വില നിശ്ചയിച്ചിരിക്കും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് പഠന മേഖല അല്ലെങ്കിൽ പഠനമേഖലയിലെ സങ്കീർണ്ണത മുതലായവ കാരണം തിരച്ചിൽ വിദഗ്ധൻ കൂടുതൽ സമയം ഇതിനായി ചിലവഴിക്കാൻ ഇടയാക്കും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് പഠന മേഖല അല്ലെങ്കിൽ പഠനമേഖലയിലെ സങ്കീർണ്ണത മുതലായവ കാരണം തിരച്ചിൽ വിദഗ്ധൻ കൂടുതൽ സമയം ഇതിനായി ചിലവഴിക്കാൻ ഇടയാക്കും അത്തരം സന്ദർഭങ്ങളിൽ തിരച്ചിലിനായി ചിലവാക്കിയ മണിക്കൂറുകൾ അധിക മണിക്കൂറുകൾ മുതലായവയെ ആശ്രയിച്ച് നിർണ്ണയിക്കപ്പെടേണ്ട മാറ്റം വരാവുന്ന ഘടകമായിരിക്കും ഫീസ് അല്ലെങ്കിൽ പ്രതിഫലം അത്തരം സന്ദർഭങ്ങളിൽ തിരച്ചിലിനായി ചിലവാക്കിയ മണിക്കൂറുകൾ അധിക മണിക്കൂറുകൾ മുതലായവയെ ആശ്രയിച്ച് നിർണ്ണയിക്കപ്പെടേണ്ട മാറ്റം വരാവുന്ന ഘടകമായിരിക്കും ഫീസ് അല്ലെങ്കിൽ പ്രതിഫലം ഒരു അഭ്യർത്ഥന തയ്യാറാക്കി അതിൽ തിരച്ചിൽ ഉത്തരവ് വ്യക്തമാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടതായ അഞ്ചാമത്തെ കാര്യം ഒരു അഭ്യർത്ഥന തയ്യാറാക്കി അതിൽ തിരച്ചിൽ ഉത്തരവ് വ്യക്തമാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടതായ അഞ്ചാമത്തെ കാര്യം എന്തിനെ കുറിച്ച് തിരയണം എന്ന് തിരച്ചിൽ വിദഗ്ധനെ ഇതിലൂടെ നിങ്ങൾ അറിയിക്കുകയാണ് എന്തിനെ കുറിച്ച് തിരയണം എന്ന് തിരച്ചിൽ വിദഗ്ധനെ ഇതിലൂടെ നിങ്ങൾ അറിയിക്കുകയാണ് ഒരു ഇന്ത്യൻ പേറ്റന്റിനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ കണ്ടെത്തൽ ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിൽ ഫയൽ ചെയ്യണമെന്നും ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിലെ എല്ലാ പേറ്റന്റും തിരയണമെന്നും നിങ്ങൾ ആവശ്യപ്പെടും ഒരു ഇന്ത്യൻ പേറ്റന്റിനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ കണ്ടെത്തൽ ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിൽ ഫയൽ ചെയ്യണമെന്നും ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിലെ എല്ലാ പേറ്റന്റും തിരയണമെന്നും നിങ്ങൾ ആവശ്യപ്പെടും വിവരണം അല്ലെങ്കിൽ ഡ്രോയിംഗ് പോലുള്ള വിവരങ്ങൾ നൽകുന്നത് കുറച്ച് കൂടി വ്യക്തത നൽകുന്നു വിവരണം അല്ലെങ്കിൽ ഡ്രോയിംഗ് പോലുള്ള വിവരങ്ങൾ നൽകുന്നത് കുറച്ച് കൂടി വ്യക്തത നൽകുന്നു തിരച്ചിൽ നടത്തുന്നയാൾ എന്തെങ്കിലും വർഗ്ഗീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തേണ്ടത് എങ്കിൽ നിങ്ങൾ അതും വ്യക്തമാക്കേണ്ടതാണ് തിരച്ചിൽ നടത്തുന്നയാൾ എന്തെങ്കിലും വർഗ്ഗീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തേണ്ടത് എങ്കിൽ നിങ്ങൾ അതും വ്യക്തമാക്കേണ്ടതാണ് നിങ്ങളുടെ കണ്ടെത്തലിന് പുതുമ അവകാശപ്പെടാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് കണ്ടെത്തൽ സവിശേഷതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് തിരച്ചിൽ വിദഗ്ദ്ധനെ അറിയിക്കണം നിങ്ങളുടെ കണ്ടെത്തലിന് പുതുമ അവകാശപ്പെടാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് കണ്ടെത്തൽ സവിശേഷതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് തിരച്ചിൽ വിദഗ്ദ്ധനെ അറിയിക്കണം കണ്ടെത്തൽ സവിശേഷതകളെ താരതമ്യം ചെയ്തും പേറ്റന്റ് ലഭിക്കാൻ സാധ്യത ഇല്ലാത്ത നിസ്സാര കാര്യങ്ങളെ വിട്ടുകളഞ്ഞും വേണം തിരച്ചിൽ നടത്താൻ കണ്ടെത്തൽ സവിശേഷതകളെ താരതമ്യം ചെയ്തും പേറ്റന്റ് ലഭിക്കാൻ സാധ്യത ഇല്ലാത്ത നിസ്സാര കാര്യങ്ങളെ വിട്ടുകളഞ്ഞും വേണം തിരച്ചിൽ നടത്താൻ നിങ്ങളുടെ അഭ്യർത്ഥനയിൽ ഒരു സമയപരിധിയും നിങ്ങൾക്ക് വ്യക്തമാക്കാം നിങ്ങളുടെ അഭ്യർത്ഥനയിൽ ഒരു സമയപരിധിയും നിങ്ങൾക്ക് വ്യക്തമാക്കാം അധിക ജോലി ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സമയംപരിധിയിൽ അയവ് വരുത്താവുന്നതാണ് അധിക ജോലി ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സമയംപരിധിയിൽ അയവ് വരുത്താവുന്നതാണ് കൂടാതെ ആവശ്യമെങ്കിൽ അധിക ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് തിരച്ചിൽ വിദഗ്ധനെ അധികാരപ്പെടുത്താവുന്നതാണ് കൂടാതെ ആവശ്യമെങ്കിൽ അധിക ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് തിരച്ചിൽ വിദഗ്ധനെ അധികാരപ്പെടുത്താവുന്നതാണ്